ഇതുവരെ നാം MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് 4 കൺട്രോൾ സോഴ്സസ് നടപ്പിലാക്കാൻ പഠിച്ചു ഒപാംപ് ഉപയോഗിച്ച് എങ്ങനെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നിവ നടപ്പിലാക്കാമെന്നും നാം ചർച്ച ചെയ്തു ഈ സർക്യൂട്ട്സ് എല്ലാം തന്നെ നെഗറ്റീവ് ഫീഡ് ബാക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിലപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇതുമായി ബന്ധപ്പെട്ട വിർച്ച്വൽ ഷോട്ട് എന്ന ആശയം എന്നിവയെപ്പറ്റി സംസാരിക്കുമ്പോൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വിർച്ച്വൽ ഷോട്ടിനെക്കുറിച്ചും ലൂപ്പിൽ വലിയ ഗെയിൻ ഉള്ള നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഇത് എങ്ങനെ ആവശ്യമായിവരുന്നു എന്നതിനെക്കുറിച്ചും ആണ് ഇനി ഞാൻ ചർച്ച ചെയ്യാൻ എളുപ്പമായ ഒപാംപ് ഉദാഹരണം എടുക്കട്ടെ പ്രത്യേകമായി ഒപാംപ് ഉപയോഗിച്ചുകൊണ്ടുള്ള വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് പരിഗണിക്കുന്നത് ഇതാണ് നോൺ ഇൻവർട്ടിങ് ആംപ്ലിഫയർ എന്നറിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം നമുക്ക് ഇൻപുട്ട് സിഗ്നൽ Vi ഉണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ നിന്നും ഉള്ള വോൾട്ടേജ് ഡിവൈഡർ ഉണ്ട് ഇത് Vd ആണ് ഒപാംപിൻറെ ഗെയിൻ Ao ആണെന്ന് എടുക്കാം ഇത് അർത്ഥമാക്കുന്നത് ഗെയിൻ Ao ആയിട്ടുള്ള വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിനു തുല്യമാണ് ഒപാംപ് എന്നാണ് ഇത് Vo ആണ് ഇത് Vd ആണ് നാം നേരത്തെ തന്നെ പരിശോധിക്കുകയും Vo Vi k 1 k Ao അഥവാ Vo സമം ഈ സംഖ്യയുടെ Vi തവണ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഡിഫറൻസ് വോൾട്ടേജ് Vd എന്നത് VoAo ആണ് ഇത് Vi k Ao 1 k Ao എന്നും എഴുതാം ഇനി Ao ∞ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായും Ao ∞ ആകുമ്പോൾ ഈ നമ്പർ k എന്നതിന് തുല്യമാകും അതുപോലെ Ao ∞ ആകുമ്പോൾ ഈ Vd 0 ആകും അതായത് Ao ∞ ആകുമ്പോൾ ഈ രണ്ട് ടെർമിനലുകളുടെയും ഇടയിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് പൂജ്യത്തിലേക്ക് മടങ്ങുന്നു Ao ∞ ആകുകയാണെങ്കിൽ ഇത് ഒരേ വോൾട്ടേജിൽ ആയിരിക്കും ഇതിനെയാണ് വിർച്വൽ ഷോർട്ട് എന്ന് വിളിക്കുന്നത് ഇനി രണ്ട് പോയൻറ്സ് അഥവാ രണ്ട് നോഡ്സ് ഉണ്ടെന്ന് കരുതുക അങ്ങനെയെങ്കിൽ വയർ ഷോർട്ട് ചെയ്യുക അങ്ങനെയെങ്കിൽ ഈ നോഡിലെയും ഈ നോഡിലെയും വോൾട്ടേജ് പരസ്പരം തുല്യമായിരിക്കും വയർ ബന്ധിപ്പിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുന്നതിനുമുമ്പ് ഇവ വ്യത്യസ്തമായിരുന്നിരിക്കാം വയറുമായി ബന്ധിപ്പിച്ച് ഷോർട്ട് ചെയ്തതിനുശേഷം വോൾട്ടേജസ് തുല്യമായിരിക്കണം ഇനി ഈ സർക്യൂട്ടിൽ ഈ നോഡിലെയും ഈ നോഡിലെയും വോൾട്ടേജ് തുല്യമായിരിക്കേണ്ട സാഹചര്യമുണ്ട് Ao ഇൻഫിനിറ്റി ആണെങ്കിൽ ഇവ വയറുമായി ബന്ധിപ്പിച്ചിട്ടില്ല ഇവ വാസ്തവത്തിൽ ഷോർട്ട് ചെയ്തിട്ടില്ല അവ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് തന്നെയില്ല യഥാർത്ഥത്തിൽ ഈ മോഡൽ ഉപയോഗിച്ചാൽ ഇത് ഇവയ്ക്കിടയിൽ ഉള്ള ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി തോന്നും പക്ഷേ വളരെ വലിയ Ao ഉള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആക്ഷൻ രണ്ടു വോൾട്ടേജസിനെയും പരസ്പരം തുല്യമാക്കുന്നു ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ രണ്ട് നോഡ്സും വിർച്ച്വലി ഷോർട്ടഡ് ആണെന്ന് പറയാൻ സാധിക്കും വ്യക്തമായും അവ യഥാർത്ഥത്തിൽ ഷോർട്ട് അല്ല അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വയറുകൾ ഇവിടെയില്ല ഈ രണ്ട് നോഡ്സും വിർച്ച്വലി ഷോർട്ടഡ് ആണ് ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ പ്രവർത്തിക്കുന്ന ഗെയിൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഏതൊരു ഒപാംപിൻറെയും കാര്യത്തിൽ സത്യമാണ് നമുക്ക് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിനെയും ഉദാഹരണമായി എടുക്കാം ഔട്ട്പുട്ട് വോൾട്ടേജ് ii Rm 1 1 Ao ആണെന്ന് നമുക്കറിയാം ഇവിടെ ഒപാംപിൻറെ ഡിഫറൻസ് വോൾട്ടേജ് Vd അഥവാ VoAo എന്നത് ii Rm Ao 1 1 Ao ആണ് Ao ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വീണ്ടും Vd 0 ആകും അതായത് ഒപാംപിൻറെ ഇൻപുട്ട് ടെർമിനലുകൾ വിർച്ച്വലി ഷോർട്ടഡ് ആണ് ഇത് സംഭവിക്കുന്നത് Ao ∞ ആയതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒപാംപിൻറെ പോസിറ്റീവ് ടെർമിനൽ ഗ്രൌണ്ടും ആയി ബന്ധിപ്പിച്ചതിനാലാണ് ഇത് വിർച്ച്വലി ഷോർട്ടഡ് ആകുന്നത് ഗെയിൻ ഇൻഫിനിറ്റി ആകുന്നതിനാൽ ഈ നോഡ് കൂടി സീറോ വോൾട്ടിൽ ആണ് അതിനാൽ ചിലപ്പോൾ ഇതിനെ വിർച്ച്വൽ ഗ്രൌണ്ട് എന്നും വിളിക്കുന്നു അതായത് ഇതിൻറെ വോൾട്ടേജ് സീറോ വോൾട്ട് ആയിരിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ ഇത് ഗ്രൌണ്ടും ആയി വയർ ഉപയോഗിച്ച് ഷോട്ട് ചെയ്തിട്ടില്ല അതാണ് വിർച്ച്വൽ ഗ്രൌണ്ട് പലപ്പോഴും ഈ വിർച്ച്വൽ ഷോർട്ട് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു ഒപാംപ് ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിൻറെ ടെർമിനൽസിൽ വിർച്ച്വൽ ഷോർട്ട് ഉണ്ടാകുന്നു എന്നതിൽ അർത്ഥമില്ല സർക്യൂട്ട് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഒപാംപിൻറെ ഗെയിൻ വളരെ കൂടുതലായിരിക്കണം തീർച്ചയായും ഒപാംപിൻറെ ഗെയിൻ വളരെ കൂടുതലായിരിക്കും ഒപാംപിൻറെ ഗെയിൻ വളരെ കൂടുതൽ ആയിരിക്കുമ്പോഴാണ് ഒപാംപ് സർക്യൂട്ട് ഉപകാരപ്രദമാകുന്നത് ഒപാംപിൻറെ ഗെയിൻ വളരെ കൂടുതലായിരിക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡിസൈനർ സോഴ്സാണ് പക്ഷേ നിങ്ങൾക്ക് ഒപാംപിനെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഉപയോഗിക്കാം എങ്കിൽ ഈ രണ്ട് ടെർമിനൽസും വിർച്ച്വലി ഷോർട്ട് ആകുന്നു ഈ സവിശേഷത ഉപയോഗിച്ച് വളരെയധികം പ്രവർത്തികൾ നിറവേറ്റാനാകും കൂടാതെ വിർച്ച്വൽ ഷോർട്ട് ഉപയോഗിച്ച് ഐഡിയൽ ഒപാംപ് സർക്യൂട്ട്സ് വിശകലനം ചെയ്യുന്നത് വളരെ എളുപ്പമാകുന്നു ഒപാംപ് സർക്യൂട്ട്സ് റിയൽ ആയാലും അതായത് സർക്യൂട്ട് ഗെയിൻ ഇൻഫിനിറ്റി അല്ലാതെ ഇരിക്കുമ്പോഴും വിർച്ച്വൽ ഷോർട്സ് ഉണ്ടാക്കി സർക്യൂട്ട്സ് വിശകലനം ചെയ്യാൻ സാധിക്കും നമുക്കു ലഭിക്കുന്നത് ഒപാംപ് സർക്യൂട്ട്സിൻറെ അപ്രോക്സിമേറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഗെയിൻ ആയിരിക്കും പലപ്പോഴും ഒപാംപ് സർക്യൂട്ട് നോക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ സാധിക്കും അതിനുശേഷം ഒപാംപിൻറെ ഫൈനൈറ്റ് ഗെയിൻ ഉപയോഗിച്ച് യഥാർത്ഥ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിശകലനം ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ വിർച്ച്വൽ ഷോട്ട്സ് എന്തുകൊണ്ട് വരുന്നു എന്നതിനെപ്പറ്റി ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതുണ്ടാകുന്നത് ഒപാംപിൻറെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകുന്നത് കൊണ്ടാണോ എന്ന ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് ഒപാംപിൻറെ രണ്ട് ടെർമിനൽസിന് ഇടയിൽ ഇൻറർണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കരുതുക വിർച്ച്വൽ ഷോട്ട് സംബന്ധിച്ച് ഇതിന് പ്രത്യേകിച്ച് കടമകൾ ഒന്നുമില്ലെന്ന് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ആദ്യം റസിസ്റ്റൻസ് ഇല്ലാത്ത Ao ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒപാംപ് വളരെ എളുപ്പമാണ് ഇത് സീറോ വോൾട്ടിൽ ആണെന്ന് നമുക്കറിയാം ഫൈനൈറ്റ് ഗെയിൻ കാരണം ഇവ രണ്ടും വിർച്ച്വലി ഷോർട്ടഡ് ആണ് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിസ്റ്റൻസ് ഇവയ്ക്ക് ഇടയിൽ ബന്ധിപ്പിക്കാം അത് ഒപാംപിന് അകത്തുള്ള റെസിസ്റ്റൻസുമായി യോജിക്കുന്നു ഞാൻ ഇത് പുറത്താണ് വരയ്ക്കുന്നത് പക്ഷേ ഇത് ഒപാംപിൻറെ അകത്ത് ആണുള്ളത് റസിസ്റ്റൻസിന് കുറുകെയുള്ള വോൾട്ടേജ് സീറോ വോൾട്ട്സ് ആയിരിക്കും അതിനാൽ ഇതിൽ കറൻറ് ഉണ്ടാകുന്നില്ല അതിനാൽ ഇത് കിർച്ചോഫ്സ് കറൻറ് ഇക്വേഷൻസിൽ Kirchhoff's current equations വ്യത്യാസം ഉണ്ടാക്കുന്നില്ല അതായത് ഇത് സർക്യൂട്ടിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല ഗെയിൻ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഒപാംപിൻറെ ഇൻപുട്ട് റെസിസ്റ്റൻസ് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല ഇൻപുട്ട് റെസിസ്റ്റൻസ് കാരണമല്ല വിർച്വൽ ഷോട്ട് ഉണ്ടാകുന്നത് ഗെയിൻ ഇൻഫൈനൈറ്റ് ആയതു കാരണമാണ് ഇതുണ്ടാകുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻറെ കാര്യത്തിലും ഇത് ബാധകമാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് ചില സീരിസ് റെസിസ്റ്റൻസ് ഉണ്ടാകാറുണ്ട് ഇതുപോലുള്ള അനാലിസിസ് നടത്തി യാതൊരുവിധത്തിലുള്ള സ്വാധീനവും ഇതിന് ഇല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒപാംപിലെ വിർച്വൽ ഷോർട്ടിനെപ്പറ്റി മറ്റൊരു രീതിയിൽ ചിന്തിക്കാവുന്നത് ഗെയിൻ ഇൻഫൈനൈറ്റ് ആയതിനാലും ഔട്ട്പുട്ട് ഫൈനൈറ്റ് ആയതിനാലും ആണെന്നതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ഫൈനൈറ്റ് ആകുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇത് ഇൻഫിനിറ്റിയിലേക്ക് വ്യതിചലിക്കും ഔട്ട്പുട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ ഇൻപുട്ട് എന്നത് അതായത് ഔട്ട്പുട്ട് ബൈ ഗെയിൻ പൂജ്യത്തിന് തുല്യമായിരിക്കണം അതിനാൽ ഔട്ട്പുട്ടിന്റെ ഏതൊരു ഫൈനൈറ്റ് വാല്യുവിനും ഇൻപുട്ട് വോൾട്ടേജ് പൂജ്യം ആയിരിക്കും അതുപോലെ ഔട്ട്പുട്ടിൻറെ ഏതൊരു ഫൈനൈറ്റ് വാല്യുവിനും ഇൻപുട്ട് പൂജ്യം ആയിരിക്കണം ഔട്ട്പുട്ട് ഇൻഫിനിറ്റിയിലേക്ക് വ്യതിചലിക്കുന്നില്ല എന്നത് ഉറപ്പായുള്ള കാര്യമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണമാണ് ഈ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉള്ളതെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും എന്ന് കാണാൻ കഴിയും ഇതാണ് വിർച്വൽ ഷോട്ട് ഒരു ട്രാൻസിസ്റ്ററിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസിസ്റ്ററിലും ഇതു കാണാൻ സാധിക്കും